അതിനാൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് II ലെ പ്രഭാഷണങ്ങളിലേക്ക് സ്വാഗതം ഇത് ലൈൻ ഇന്റഗ്രലിലെ പ്രഭാഷണ നമ്പർ 4 ആണ് സ്മൂത്ത് കർവ് കളും പീസ് വൈസ് സ്മൂത്ത് കർവ് കളും എന്താണെന്ന് ഇന്ന് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തും കൂടാതെ നമ്മൾ സിമ്പിൾ ക്ലോസ്ഡ് കർവുകളെക്കുറിച്ച് സംസാരിക്കും ഒടുവിൽ വെക്റ്റർ ക്രമീകരണത്തിൽ ലൈൻ ഇന്റഗ്രലുകളെ അവതരിപ്പിക്കും അപ്പോൾ എന്താണ് സ്മൂത്ത് കർവ് ഇത് rtxtiytjztk ആകട്ടെ അത് നമ്മൾ ഒരു കർവിനെ സൂചിപ്പിക്കുന്നു കൂടാതെ ഈ rt ക്ക് തുടർച്ചയായ ആദ്യ ഓർഡർ ഡെറിവേറ്റീവുകൾ ഉണ്ട് rt എവിടെയും 0 അല്ല നമ്മൾ ഇത് ഇവിടെ ഊന്നിപ്പറയും എന്തുകൊണ്ട് t യുടെ തന്നിരിക്കുന്ന മൂല്യങ്ങൾക്ക് ഇത് 0 ആവരുത് എന്നത് പിന്നീട് നമ്മൾ അന്വേഷിക്കും അതിനാൽ t യുടെ എല്ലാ മൂല്യങ്ങൾക്കും ഈ വെക്റ്റർ 0 അല്ലാത്തതായിരിക്കണം തുടർന്ന് ഇതിനെ സ്മൂത്ത് കർവ് എന്ന് അറിയപ്പെടുന്നു അതിനാൽ ഇവിടെ 2 വ്യവസ്ഥകളുണ്ട് ഒന്ന് rt ക്ക് തുടർച്ചയായ ആദ്യ ഓർഡർ ഡെറിവേറ്റീവുകൾ ഉണ്ട് എന്നും രണ്ടാമത്തേത് അവ എവിടെയും 0 ആവുന്നില്ല എന്നും അപ്പോൾ കർവ് സ്മൂത്ത് കർവ് എന്ന് അറിയപ്പെടുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ dxdtdydtanddzdt എന്നീ ഡെറിവേറ്റീവുകൾ തന്നിരിക്കുന്ന a b എന്ന ഇന്റെർവെലിൽ കണ്ടിന്യൂസ് ആയിരിക്കുകയും അവയെല്ലാം ഒരുമിച്ച് 0 ആവാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്പേസ് കർവ് rt സ്മൂത്ത് കർവ് ആണെന്ന് നമുക്ക് പറയാം അതിനാൽ വീണ്ടും എവിടെയും 0 അല്ല എഴുതിയതിന് അർത്ഥം a b എന്ന മുഴുവൻ ഇന്റെർവെലിൽ ഒരു നിശ്ചിത t യിൽ അവ ഒരുമിച്ചു ഒരേസമയം 0 അല്ല എന്നാണ് ഈ അവസ്ഥ അതായത് എവിടെയും 0 അല്ല എന്നത് കർവിന്ന് ഷാർപ് കോർണർ അഥവാ ഷാർപ് കർവ് ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്നു ഇത് അടുത്ത ഉദാഹരണത്തിൽ നമ്മൾ പര്യവേക്ഷണം ചെയ്യും ഉദാഹരണത്തിന് നിങ്ങൾ ഈ rtt2it3j എന്ന 2D യിലെ കർവ് ഇവിടെ t എന്നത് 1 മുതൽ 1 വരെ വ്യത്യാസപ്പെടുന്നു പരിഗണിക്കുകയാണെങ്കിൽ drtdt നമുക്ക് കണക്കുകൂട്ടാം അതായത് t2 ൻറെ ഡെറിവേറ്റീവ് 2t യും t3 ൻറെ ഡെറിവേറ്റീവ് 2t2 ഉം ആണ് അതിനാൽ നമ്മൾക്ക് ഈ ടാൻജന്റ് വെക്റ്റർ 2ti3t2j ഉണ്ട് നമ്മൾ ഇത് t0 ന് തുല്യമായി കണക്കാക്കുകയാണെങ്കിൽ ഈ ടാൻജന്റ് വെക്റ്റർ 0 ആണെന്ന് നമുക്ക് കാണാം ടാൻജന്റ് വെക്റ്റർ 0 ആയിരിക്കരുത് അതായത് അർത്ഥം എല്ലാ പോയിന്റിലും ഒരു നോൺ സീറോ ടാൻജന്റ് വെക്റ്റർ ഉണ്ടായിരിക്കണം എന്നാണ് അതിനാൽ നമുക്ക് ഈ 0 ലഭിക്കുമ്പോൾ ഇത് തന്നെ കർവ് സ്മൂത്ത് അല്ലെന്ന് സൂചിപ്പിക്കുന്നു നിങ്ങൾ ഈ കർവ് t2it3j പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണുന്നു ഇവിടെ ഒറിജിനിൽ അഥവാ t 0 എന്നത്ന് തുല്യമായി ഒരു കോർണർ ഉണ്ട് അതിനാൽ കർവിൽ ഒരു മൂർച്ചയുള്ള ഓവർ ടേൺ ഉണ്ട് അതിനാൽ ഈ കർവ് ഒരു സ്മൂത്ത് കർവല്ല drtdt0 എന്ന കണ്ടീഷൻ സ്മൂത്ത് അല്ലാത്തതിനെ സൂചിപ്പിക്കണം എന്ന് നിർബന്ധമില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നിരുന്നാലും 0 ന് തുല്യമല്ലാത്തപ്പോഴെല്ലാം അതിനർത്ഥം ഒരു ടാൻജെന്റ് വെക്റ്റർ ഉണ്ട് അത് 0 വെക്റ്റർ അല്ല അത് എല്ലായ്പ്പോഴും സ്മൂത്ത്നെസ്സ്നെ സൂചിപ്പിക്കുന്നു എന്നാൽ drtdt0 എന്ന കണ്ടീഷൻ നിർബന്ധമായും ഒരു നോൺ സ്മൂത്ത്നെസ്സ്നെ സൂചിപ്പിക്കുന്നു മുമ്പത്തെ ഉദാഹരണത്തിലെന്നപോലെ drtdt എന്നത് 0 ആയിരുന്നു കർവ് സ്മൂത്ത് അല്ലെന്ന് നമ്മൾ കണ്ടു ഉദാഹരണത്തിന് ഈ കർവ് t3it6j t എന്നത് 11 ൽ വ്യത്യാസപ്പെടുന്നു ഇവിടെ പരിഗണിച്ചാൽ നമ്മൾ drtdt കണക്കുകൂട്ടുകയും ഇത് 0 ന് തുല്യമായി വിലയിരുത്തുകയും ചെയ്താൽ ഈ ടാൻജന്റ് വെക്റ്ററിന്റെ മൂല്യം 0 ആണെന്ന് നമ്മൾ നിരീക്ഷിക്കും ഈ പ്രത്യേക സാഹചര്യത്തിൽ കർവ് സ്മൂത്ത് ആണെന്ന് നമ്മൾ കാണും ഈ t3it6j ന്റെ ഒരു ഗ്രാഫ് വരച്ചാൽ ഈ കർവ്ന്റെ ചിത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി നിരീക്ഷിക്കാനാകും ഉൾപ്പെടെ എല്ലാ പോയിന്റുകളിലും കർവ് സ്മൂത്ത് ആണെന്ന് നമ്മൾ കാണുന്നു അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അതിനാൽ നമുക്ക് വ്യത്യസ്തമായ പാരാമെറ്ററൈസേഷൻ ഉണ്ടാകും ഇത് ഒരു പാരാമീറ്ററൈസേഷൻ ആയിരുന്നു അതിനാൽ നമ്മൾ ഇവിടെ സൂക്ഷ്മമായി പരിശോധിച്ചാൽxtt3 ytt6 എന്നിവയാണ് അതിനാൽ ഇവ രണ്ടും സൂചിപ്പിക്കുന്നത് ഇവിടെ yx2 ആണെന്നാണ് അതിനാൽ ഇതൊരു പരാബോളയാണ് മറ്റൊന്നുമല്ല ഈ പരാമീറ്റർ ഫോം t3it6j ൽ എഴുതിയ തന്നിരിക്കുന്ന കർവ് ഒരു പരാബോളയാണ് അതിനാൽ നമുക്ക് നിരവധി പാരാമീറ്ററൈസേഷൻ ഉണ്ടാകും ഉദാഹരണത്തിന് മറ്റ് പാരാമീറ്ററൈസേഷൻ നമുക്ക്xtt തുടർന്ന് ytt2 പോലെയാകാം അതിനാൽ ഈ പ്രത്യേക പരാമെറ്ററൈസേഷൻൽ നമ്മൾ drtdtകണക്കുകൂട്ടുകയാണെങ്കിൽ ആദ്യത്തെ ഘടകം t ആണ് അതിൻറെ ഡെറിവേറ്റീവ് 1 ആകുന്നു രണ്ടാമത്തെ ഘടകം t ആണ് അതിൻറെ ഡെറിവേറ്റീവ് 2t ആകുന്നു അതിനാൽ നമുക്ക് drtdt അഥവാ കർവിന്റെ ടാൻജെന്റ് 1i2t j എന്നു ലഭിക്കുന്നു t യുടെ ഏതു മൂല്യത്തിനും ഇത്നോൺ സീറോ ആയിരിക്കും അതിനാൽ നമ്മൾ പഠിച്ചത് ഒരു നിശ്ചിത പദത്തിന്റെ പാരാമീറ്ററൈസേഷന്റെ ഒരു രൂപമുണ്ടാകാം ഇത് t നെ സംബന്ധിച്ചിടത്തോളം ഈ r ന്റെ ഡെറിവേറ്റീവ് 0 ആണെന്ന് നമ്മോട് പറഞ്ഞേക്കാം എന്നാൽ ഇത് കർവ് സ്മൂത്ത് അല്ലെന്ന് സൂചിപ്പിക്കുന്നില്ല നമ്മൾ ഇവിടെ കണ്ട ഉദാഹരണം പോലെ കർവ് സ്മൂത്ത് ആയിരിക്കാം അതിനാൽ നമ്മൾ ഉപയോഗിക്കുന്ന പീസ്വൈസ് സ്മൂത്ത് കർവ് എന്ന ഒരു പദമുണ്ട് ഇത് നിശ്ചിത എണ്ണം സ്മൂത്ത് കർവുകളാൽ നിർമ്മിച്ചതാണ് അതിനാൽ നമുക്ക് പരിമിതമായ സ്മൂത്ത് കർവുകൾ ഉണ്ടാകും മൂർച്ചയുള്ള കോർണർകൾ ഉണ്ട് പക്ഷേ ഇവ ഇവിടെ നിന്ന് ഇവിടെ വരെ നിന്ന് നിർമ്മിച്ചവയാണ് കർവ് ഈ ഭാഗത്ത് വീണ്ടും സ്മൂത്ത് ആണ് വീണ്ടും ഈ ഭാഗത്ത് കർവ് സ്മൂത്ത് ആണ് അതിനാൽ ഈ കർവ് സ്മൂത്ത് ആണെന്ന് നമ്മൾ ഇവിടെ വിളിക്കും ഇത് മൊത്തത്തിൽ ഒരു സ്മൂത്ത് കർവ് അല്ല പക്ഷേ കഷണങ്ങളായി ഈ കർവ് സ്മൂത്ത് ആണ് സിമ്പിൾ ക്ലോസ്ഡ് കർവിലേക്ക് വരുന്നു വെക്റ്റർ കാൽക്കുലസിൽ പതിവായി ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് അതിനാൽ ഇവിടെ ഇന്റർസെക്റ്റ് ചെയ്യാത്ത ഒരു കർവ് അതിനാൽ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എവിടെയും സ്വയം ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല അതോടൊപ്പം പ്രാരംഭവും അവസാനവുമായ പോയിന്റുകൾ ഒന്നുതന്നെയാണ് അത്തരം കർവ്കൾ സിമ്പിൾ ക്ലോസ്ഡ് കർവ് എന്നറിയപ്പെടുന്നു അതിനാൽ പ്രാരംഭ അവസാന പോയിന്റുകളിൽ നിന്നാണ് ക്ലോസ്സ്നെസ്സ് വരുന്നത് കാരണം അവ ഒന്നുതന്നെയാണ് കർവ് സ്വയം ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല അതാണ് നമ്മൾ സിമ്പിൾ എന്ന് പദാവലി ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ഈ കർവ് സ്വയം ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല പ്രാരംഭ പോയിന്റും അവസാന പോയിന്റുകളും ഒന്നുതന്നെയാണ് അതിനാൽ കർവ് ക്ലോസ്ഡ് ആണ് അതിനാൽ ഇത് ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആണ് സിമ്പിൾ ക്ലോസ്ഡ് കർവ്ന്റെ ഒരു ഉദാഹരണം ഈ സാഹചര്യത്തിൽ ഇത് ഒരു ക്ലോസ്ഡ് കർവ് അല്ല കാരണം ഈ പ്രാരംഭ പോയിന്റും അവസാന പോയിന്റുകളും വ്യത്യസ്തമാണ് അതിനാൽ ഈ കർവ് സിമ്പിൾ ആണ് പക്ഷേ ഇത് ഒരു ക്ലോസ്ഡ് കർവ് അല്ല അത് സ്വയം ഇന്റർസെക്റ്റ് ചെയ്യാത്തതിനാൽ സിമ്പിൾ ആണ് ഉദാഹരണത്തിന് ഇവിടെ ഈ കർവ് ക്ലോസ്ഡ് കർവ് ആണ് എന്നാൽ ഈ ഘട്ടത്തിൽ അത് സ്വയം ഇന്റർസെക്റ്റ് ചെയ്യുന്നു അതിനാൽ ഇത് സിമ്പിൾ അല്ല അതിനാൽ ഇത് ക്ലോസ്ഡ് ആണ് പക്ഷേ സിമ്പിൾ അല്ല ശരി ഇന്നത്തെ പ്രഭാഷണത്തിന്റെ പ്രധാന വിഷയത്തിലേക്ക് മടങ്ങിവരിക അത് ലൈൻ ഇന്റഗ്രൽ ആണ് അതിനാൽ വെക്റ്റർ ക്രമീകരണത്തിലെ ലൈൻ ഇന്റഗ്രൽസ് എന്ന് വിളിക്കുന്നതെന്താണെന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തും അതിനാൽ നമ്മൾക്ക് ഇവിടെയുണ്ട് ഇത് ഒരു പ്രത്യേക ഉദാഹരണമാണ് എന്നാൽ മറ്റേതെങ്കിലും മറ്റേതെങ്കിലും വെക്റ്റർ ഫീൽഡിന് ഇത് പൊതുവൽക്കരിക്കാനാകും ഒരു പാർട്ടിക്കിളിൽ ഒരു ഫോഴ്സ് ഫീൽഡ് F ആക്ട് ചെയ്യുന്നു എന്നിരിക്കട്ടെ അത് തന്നിരിക്കുന്ന ഒരു കർവ് C ൽ പ്രദർശിപ്പിക്കപ്പെടുന്നു അതിനാൽ നമുക്ക് ഇവിടെ കർവ് C ഉണ്ട് ഈ കർവിലൂടെ ഒരു പാർട്ടിക്ക്ൾ ഡിസ്പ്ലേസ് ചെയ്യുന്നു അത് പോയിന്റ് A യിൽ നിന്ന് പോയിന്റ് B യിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുകയാണ് ഈ തന്നിരിക്കുന്ന പോയിന്റ് Pxiyizi ലെ ടാൻജന്റ് വെക്റ്റർ T ആണെന്ന് കരുതുക തുടർന്ന് ഈ പാർട്ടിക്ക്ൾ A യിൽ നിന്ന് B യിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നതിന് ഈ ഫോഴ്സ് ഫീൽഡ് F ന് നേരെ നടത്തിയ ടോട്ടൽ വർക്ക് ഡൺ നമ്മൾ കണക്കാക്കും അതിനാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇന്റഗ്രൽ കാൽക്കുലസിലും നമ്മൾ ചെയ്യുന്നതുപോലെ നമ്മൾ ഈ കർവ്നെ ചെറിയ സെക്ടറുകൾ ആയി വിഭജിക്കും നമ്മൾ ഇതിനകം ചർച്ച ചെയ്ത സാധാരണ ഇന്റെഗ്രേലിന്റെ നിർവചനം അതിനാൽ ഇവിടെ si നീളത്തിലുള്ള ഒരു ചെറിയ സബ് ആർക്ക്ൽ ചെയ്ത വർക്ക് എന്നത് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും പ്രോഡക്റ്റ് ആയിരിക്കും അതിനാൽ ഈ ദിശയിൽ പ്രവർത്തിക്കുന്ന ഫോഴ്സ് ഫീൽഡ് ഇതാണെന്ന് കരുതുക അതിനാൽ ഈ കർവ്ന്റെ ടാൻജന്റിൽ ഇതിന്റെ ഏത് ഘടകമാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്തും ഉദാഹരണത്തിന് ഇവിടെ ഇത് ഈ കർവിന്റെ ടാൻജന്റും ടി വെക്റ്റർ നമ്മൾ നിർവ്വചിച്ച ഈ വെക്ടർ T യൂണിറ്റ് ടാൻജന്റ് വെക്ടർമാണ് അതിനാൽ നമ്മൾ ഈ ഘടകം കണക്കുകൂട്ടും അതിനാൽ ഈ ടാൻജെന്റിൽ ഈ F ന്റെ ഒരു പ്രൊജക്ഷൻ ആണ് ഇത് Fഉം Tയും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ടാണ് ഇത് നൽകപ്പെടുന്നത് ഏത് പോയിൻറ്ലും ടാൻജന്റിൽ പ്രവർത്തിക്കുന്ന ഫോഴ്സിന്റെ കംപോണേന്റ് ആണിത് നമുക്ക് ഈ വർക്ക് ഡൺ ലഭിക്കണമെങ്കിൽ അതിനാൽ ഇതാണ് ഫോഴ്സ് തുടർന്ന് ആർക്കിലെ ഡിസ്പ്ലേസ്മെന്റ് si ആണ് ഇത് ഒരു ചെറിയ ആർക്കിനുള്ളതാണ് ഈ ചെറിയ ആർക്കുകളെല്ലാം ഈ A മുതൽ B വരെ ചേർക്കുകയും തുടർന്ന് ഈ ആർക്കിന്റെ നീളം 0 യിലേക്ക് അടുക്കുക ആയിരിക്കുകയും ചെയ്യുന്നു ഏത് പോയിന്റിലും നമ്മൾക്ക് സമാനമായ സാഹചര്യം ഉണ്ടെന്ന് ഞാൻ ഇവിടെ കാണിച്ചു അതിനാൽ വീണ്ടും ഈ FT ഈ ടാൻജന്റ് T യിൽ പ്രവർത്തിക്കും അതിനാൽ ഈ വർക്കുകൾ എല്ലാം നമ്മൾ ഇവിടെ ചേർക്കുകയാണെങ്കിൽ ഈ സമ്മേഷൻ i1Nwi വഴി നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കണക്കാക്കാം ഈ മൊത്തം കർവ്ന്റെ സെഗ്മെന്റുകളുടെ എണ്ണം N ആണെന്നും N അനന്തതയിലേക്ക് പോകാൻ അനുവദിക്കുമെന്നും നമ്മൾ ഈ പരിധി എടുക്കുന്നു അതിനാൽ നമ്മൾക്ക് ആർക്കിലുള്ള വർക്ക് ഡൺ കൃത്യമായി ലഭിക്കും ഇവിടെ ഈ ലിമിറ്റ് നമ്മൾ CFTds ആയി എഴുതുന്നു ds എന്നത് ആർക്കിലെ ഈ എലമെന്റ് ആണ് അതിനാൽ ഈ ഇന്റെഗ്രലിനെ എങ്ങനെ വിലയിരുത്താം സാധ്യതകൾ എന്തൊക്കെയാണ് മൂല്യനിർണ്ണയത്തിന്റെ വ്യത്യസ്ത വഴികൾ എന്നിവയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ അന്വേഷിക്കും അതിനാൽ ഈ കർവ് C ഈ വെക്റ്റർ ഫംഗ്ഷൻ rtxtiytjztk നൽകിയതാണെന്ന് കരുതുക യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ ഈ rt യുടെ ഡെറിവേറ്റീവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന് നമ്മൾ ഇതിനകം പഠിച്ചതായി നിങ്ങൾ ശ്രദ്ധിക്കുന്നു അതിനാൽ rt യുടെ ഡെറിവേറ്റീവ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഹരിച്ചാൽ യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ ലഭിക്കും ds ഈ ആർക്ക് ലെങ്ത് ആദ്യ പ്രഭാഷണത്തിൽ തന്നെ പഠിച്ചു r യുടെ മാഗ്നിറ്റ്യൂഡ് dt കൊണ്ട് ഗുണിച്ചാൽ ഈ ds നമുക്ക് പ്രകടിപ്പിക്കാവുന്ന ഘടകമാണ് r ഇത് വെറും xt2yt2zt2 ആയിരുന്നു ഇത് ഇതിനകം അവിടെ ചർച്ച ചെയ്യപ്പെട്ടു അതിനാൽ ആർടിയുടെ ഈ ഡെറിവേറ്റീവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ds കണക്കാക്കാം അതിനാൽ FTds എന്നതായിരുന്നു ഇന്റഗ്രന്റ് അതിനാൽ FT യിൽ rt യിൽ നിന്ന് ലഭിച്ച ഡെറിവേറ്റീവിനെ ഈ rt ഡെറിവേറ്റീവിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് വിഭജിച്ചു തുടർന്ന് ds എന്നത് rdt ആണ് അതിനാൽ ഇത് റദ്ദാക്കപ്പെടും നമ്മൾക്ക് ഇവിടെ Fxtytztrdt എന്ന് ലഭിക്കും ഇത് F⋅dr എന്നും എഴുതാം കാരണം നമ്മൾ ഈ drdt എഴുതിയത് r ആണ് അതിനാൽ ഇവിടെ നമുക്ക് dr എന്നതിനെ rdt എന്നും എഴുതാം അതിനാൽ ഈ കർവ് ഇന്റഗ്രൽ ഈ രൂപത്തിൽ ചെയ്ത മൊത്തം ടോട്ടൽ വർക്ക് ഡൺ നമുക്ക് പ്രകടിപ്പിക്കാം അല്ലെങ്കിൽ നമ്മൾ അതിനെ ലൈൻ ഇന്റഗ്രൽ CFTds എന്ന് വിളിക്കുന്നു ഇതാണ് യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ ds ഇപ്പോൾ നമുക്ക് അതിനെ F⋅dr ആയി എഴുതാം അല്ലെങ്കിൽ Fxtytztrdt എന്ന് എഴുതാം അതിനാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന വിലയിരുത്തലിന്റെ ഏറ്റവും ലളിതമായ രൂപമാണിത് നമ്മൾ F ൽ ഈ പാരാമെട്രിക് ഫോം Fxtytzt എന്നിവ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഈ r വിലയിരുത്തും ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ പഠിച്ച സിംഗിൾ ഇന്റഗ്രലിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യും ഇവിടെ പ്രോബ്ലം അനുസരിച്ച് t എന്നത് A മുതൽ B വരെ വ്യത്യാസപ്പെടും അതിനാൽ നമുക്ക് ഇപ്പോൾ തുടരാം മൂല്യനിർണ്ണയ ഭാഗം ഇത് ലൈൻ ഇന്റഗ്രൽ ആണെന്ന് കരുതുക ഒരാൾക്ക് ഇത് വിലയിരുത്താൻ 2 വഴികളുണ്ട് ഇത് ഈ കർവ്ന്റെ സമവാക്യമാണെങ്കിൽ നമുക്ക് ഈ dr എന്നത് drdtdt ആയി വിലയിരുത്താം ഇത് നമുക്ക് ഇതിനകം അറിയാം ഈ കർവ് ഇന്റഗ്രൽ ഈ സിംഗിൾ ഇന്റഗ്രൽ സഹായത്തോടെ വിലയിരുത്താൻ കഴിയും F വെക്റ്റർ ഫീൽഡിൽ നമ്മൾ ആ പാരാമെട്രിക് ഫോം xtytzt എന്നിവ പകരം മാറ്റി തുടർന്ന് drdt വിലയിരുത്തും ഈ ഡോട്ട് പ്രോഡക്റ്റ് t യിൽ ഇന്റഗ്രേറ്റ് ചെയ്യും ഈ t അത് a മുതൽ b വരെ വ്യത്യാസപ്പെടുന്നു ഘടക രൂപത്തിൽ ഈ F ൽ F1xyziF2xyzjF3xyz എന്നീ 3 ഘടകങ്ങൾ ഉണ്ടെന്നും r എന്നത് xiyjzk ആണെന്നും കരുതുക അതിനാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും dr നമുക്ക് dxidyjdzk എന്ന് ആയിരിക്കും ആ സാഹചര്യത്തിൽ F⋅dr വിലയിരുത്താൻ കഴിയും അത് ഈ പ്രോഡക്ട് F1xyzdxF2xyzdyF3xyzdzആയിരിക്കും അതിനാൽ ഉദാഹരണങ്ങളിൽ നമ്മൾ നിരീക്ഷിക്കുന്നത് ചില സന്ദർഭങ്ങളിൽ പാരാമട്രിക് സമവാക്യം എളുപ്പത്തിൽ ലഭ്യമാകുമ്പോഴോ അല്ലെങ്കിൽ പ്രോബ്ലത്തിൽ നൽകുമ്പോഴോ നമുക്ക് ഈ ഫോം ഇവിടെ വെക്റ്റർ രൂപത്തിൽ പ്രയോഗിക്കാവുന്നതാണ് നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ അത് ഘടക രൂപത്തിൽ നൽകുമ്പോൾ നമുക്ക് ഈ ഇന്റഗ്രൽ dx dy dz കൃത്യമായി ചെയ്യാൻ കഴിയും ഈ ഘടക ഫോം അല്ലെങ്കിൽ വെക്റ്റർ ഫോം ഉപയോഗിക്കുമ്പോൾ എങ്ങനെ വിലയിരുത്താം എന്ന് പ്രത്യേക ഉദാഹരണങ്ങളിൽ നമ്മൾ നിരീക്ഷിക്കും അതിനാൽ ഈ ഫോഴ്സ് ചെയ്ത വർക്ക് കണ്ടെത്താൻ നമ്മൾക്ക് ഈ പ്രോബ്ലം ഉണ്ടെന്ന് കരുതുക അതിനാൽ ഇത് നൽകിയിട്ടുള്ള ഫോഴ്സ് ഫീൽഡ് ആണ് നമ്മൾക്ക് കർവിന് മുകളിലുള്ള 3 ഘടകങ്ങൾ ഉണ്ട് കർവ് സമവാക്യവും നൽകിയിരിക്കുന്നു അതാണ് പാരാമട്രിക് സമവാക്യം അല്ലെങ്കിൽ ഈ ഒരു വേരിയബിളിന്റെ വെക്റ്റർ ഫംഗ്ഷൻ നൽകിയിരിക്കുന്നു t 0 മുതൽ 1 വരെ വ്യത്യാസപ്പെടുന്നു അതിനാൽ അത് t 0 ആയിരിക്കുമ്പോൾ നമ്മൾ 0 0 0 പോയിന്റിലാണ് ഇത് സ്വാഭാവികമായും ഈ വെക്റ്റർ ഫംഗ്ഷനിൽ നിന്ന് വരും t1 ഒന്നാകുമ്പോൾ നമ്മൾ 1 1 1 പോയിന്റിലാണ് അതിനാൽ നമ്മൾ ഈ കർവ് ഈ 0 0 0 മുതൽ 1 1 1 വരെ ഈ പൊസിഷൻ വെക്റ്ററിലൂടെ പോകുന്നു അതിനാൽ പാരാമട്രിക് ഫോം നൽകിയിരിക്കുന്നു ഈ വർക്ക് ചെയ്തതിന്റെ വിലയിരുത്തലിനായി നിങ്ങൾ ഈ വെക്റ്റർ ഫോം ഉപയോഗിക്കും അതിനാൽ drdt നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് അതിനാൽ t സംബന്ധിച്ചുള്ള t യുടെ ഭാഗിക ഡെറിവേറ്റീവ് ഒന്നാണ് ഇവിടെ t2 എന്നതിന്റ് 2t ആയിരിക്കും t3 എന്നതിന്റ് 3 t2 ആയിരിക്കും നമുക്ക് ഇവിടെ F ഉണ്ട് ഈ പാരാമട്രിക് ഫോം ഇവിടെ പകരം വയ്ക്കുമ്പോൾ അർത്ഥമാക്കുന്നത് xtt ytt2 എന്നിവയാണ് അതിനാൽ നമുക്ക് അവ സബ്സ്റ്റിട്യൂട്ട് ചെയ്യാം ഫസ്റ്റ് കോംപോണേന്റ് y x2t2 t2 സെക്കന്റ് കോംപോണേന്റ് z y2t3 t4 മൂന്നാമത്തെ കോംപോണേന്റ് നമുക്ക് x z2t t6 എന്നിവ ഉണ്ട് അതിനാൽ ഇവിടെ ഒന്നാമത്തെ കോംപോണേന്റ് t2 t2 റദ്ദാക്കുകയും F ന് 2 ഘടകങ്ങൾ മാത്രം ആവുകയും ചെയ്യുന്നു കൂടാതെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് Fdrdt2tt3 t43t2 ലഭിക്കും t യുടെ അടിസ്ഥാനത്തിൽ FT യ്ക്കുള്ള ഈ ലളിതമായ പദപ്രയോഗം നമുക്ക് ലഭിക്കും ഇപ്പോൾ നമുക്ക് F⋅dr ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും t യുടെ പരിധി 0 മുതൽ 1 വരെയാണ് ഇത് F⋅dr ആണ് കൂടാതെ dt ന് മുകളിൽ നമുക്ക് ഈ ലളിതമായ ഇന്റഗ്രൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും അതിൻറെ മൂല്യം 2960 എന്ന് വരും ഈ ലൈൻ ഇന്റഗ്രൽ F⋅dr വീണ്ടും കണക്കുകൂട്ടുന്ന രണ്ടാമത്തെ പ്രോബ്ലം ഈ ഫംഗ്ഷൻ Fx2y2i 2xyj ആയി നൽകുന്നു ഈ സാഹചര്യത്തിൽ കർവ് y0xaybx0 എന്നിവയാൽ ബൌണ്ടഡ്ആയിട്ടുള്ള ആണ് xy പ്ലെയിൻലെ ഒരു ദീർഘചതുരം ആണ് നമുക്ക് ഇത് എളുപ്പത്തിൽ വരയ്ക്കാം y0 എന്നത് ഈ ലൈൻ അഥവാ x ആക്സിസ് ആണ് അപ്പോൾ നമുക്ക് x a ഇതാണ് ഇവിടെ ലൈൻ അതായത് x ആക്സിസ്സിന് ലംബമായി a ലൂടെ ഉള്ളത് പിന്നെ നമുക്ക് y b എന്നത് y ആക്സിസ്സിന് ലംബമായി b ലൂടെ ഉള്ളത് തുടർന്ന് x 0 y0 എന്നത് y ആക്സിസ് ആണ് അതിനാൽ ഈ ദീർഘചതുരത്തിന്റെ ഈ ബൌണ്ടറികളിൽ ഈ ലൈൻ ഇന്റഗ്രൽ നമ്മൾ ഇപ്പോൾ വിലയിരുത്തും Fx2y2i 2xyj ആണ് അതിനാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ നമ്മൾക്ക് ഈ ദീർഘചതുരം നൽകിയിട്ടുള്ളതിനാൽ അതായത് y0 ഇവിടെ ഈ AB ലൈനിൽ xa x0 ഉം CB ലൈനിൽ y b ഉം എന്നിങ്ങനെ നൽകിയിട്ടുള്ളതിനാൽ ഘടക രൂപത്തിൽ നേരിട്ട് xy ഫോമിൽ എഴുതി ചെയ്യുകയാണെങ്കിൽ ഇത് പാരാമട്രിക് ഫോമിലേക്ക് മാറ്റി ചെയ്യുന്നതിനേക്കാൾ വളരെ എളുപ്പമായിരിക്കും എന്നാൽ ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാരാമട്രിക് ഫോമിലേക്ക് മാറ്റി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത് ഇപ്പോൾ വളരെ നിസ്സാരമാണ് അതിനാൽ F⋅drഎന്നാൽ x2y2dx 2xydy എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ലൈൻ ഇന്റഗ്രൽ നമ്മൾ വിലയിരുത്തും അതിർത്തിയിൽ 4 ഭാഗങ്ങളുണ്ട് ആദ്യം നമ്മൾ OA യിലുള്ളത് പരിഗണിക്കും അതിനാൽ OA യ്ക്കൊപ്പം എന്താണ് പ്രത്യേകത y 0 ആണ് y 0 എന്നാൽ dy0 യും ആണ് x 0 മുതൽ a വരെ വ്യത്യാസപ്പെടുന്നു അതിനാൽ ഈ OA അക്ഷത്തിൽ ലഭ്യമായ വിവരമാണിത് അതിനാൽ ഈ OA യ്ക്കൊപ്പം നമ്മൾ ഇവിടെയുള്ള ഈ ലൈൻ ഇന്റഗ്രൽ F⋅dr നെ വിലയിരുത്തും dy0 ആയതിനാൽ ആദ്യ ഭാഗം മാത്രമേ നിലനിൽക്കൂ x 0 മുതൽ a വരെ വ്യത്യാസപ്പെടുന്നു y0 എന്നിങ്ങനെ ഉള്ളിടത്ത് ഈ ആദ്യ ഇന്റഗ്രലിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ y0 ആയി ക്രമീകരിക്കും ഈ പദം 0 ആയി പോകും അതിനാൽ നമുക്ക് x2dx മാത്രമായിരിക്കും ടേം അത് വിലയിരുത്താൻ കഴിയും തുടർന്ന് നമുക്ക് ഈ a33 ലഭിക്കും അതുപോലെ ഈ AB ലൈനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് xa ആണ് അതിനാൽ ഈ dx0 യുമാണ് കാരണം xa എന്നത് കോൺസ്റ്റൻഡ് ആണ് അതിനാൽ സ്വാഭാവികമായും dx0 ആയിരിക്കും ഈ സാഹചര്യത്തിൽ y ഈ 0 മുതൽ b വരെ വ്യത്യാസപ്പെടുന്നു അതിനാൽ നൽകിയിരിക്കുന്ന ഇന്റഗ്രലിലെ അതേ സാഹചര്യം നമ്മൾ പകരം വയ്ക്കുന്നത് xa ന് തുല്യമാണ് dx0 ആയിരിക്കും y 0 മുതൽ b വരെ വ്യത്യാസപ്പെടും അതിനാൽ ഞങ്ങളുടെ ഇന്റഗ്രൽ y യ്ക്കായിരിക്കും അതിനാൽ ഈ ഇന്റഗ്രലിൽ ആദ്യ പദം 0 ലേക്ക് പോകും രണ്ടാമത്തേത് നമുക്ക് 2ax ആണ് അതിനാൽ x എന്നത് a കൊണ്ട് മാറ്റി പകരം അത് 2aydy ആയിരിക്കും അതിനാൽ ഈ ഇന്റഗ്രൽ നമുക്ക് വീണ്ടും വിലയിരുത്താൻ കഴിയും അതിൻറെ മൂല്യം ab2 എന്നായിരിക്കും മൂന്നാമത്തേത് BC യിലൂടെ നീങ്ങുമ്പോൾ ഈ BC യിൽ ഇവിടെ y എന്നത് b ക്ക് തുല്യമാണ് അതായത് dy0 ആണ് y യിൽ വ്യത്യാസമില്ല അതിനാൽ ഇന്റഗ്രൽലെ രണ്ടാമത്തെ പദം ഇവിടെ അപ്രത്യക്ഷമാകും നമ്മൾക്ക് x2y2 ഉണ്ട് y അവിടെ b ആയതിനാൽ അത് x2b2 ആകും തുടർന്ന് dx x പിന്നീട് a മുതൽ 0 വരെ വ്യത്യാസപ്പെടുന്നു അതിനാൽ ഇത് നമുക്ക് വിലയിരുത്താനും കഴിയും മൂല്യം a33ab2 ആയിരിക്കും അതുപോലെ CO യിൽ x0 ആണ് അതിനാൽ dx ടേം 0 ആയിരിക്കും രണ്ടാമത്തെ ടേം 0 ആയിരിക്കും കാരണം രണ്ടാമത്തെ ടേമിൽ നമുക്ക് ഈ x ഉണ്ട് x0 ആയതിനാൽ രണ്ടാമത്തെ ടേം അപ്രത്യക്ഷമാകും നമ്മൾക്ക് dx0 ഉള്ളതിനാൽ ആദ്യത്തേത് അപ്രത്യക്ഷമാകും അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ ഇന്റഗ്രൽ 0 ആകും അങ്ങനെ നമുക്ക് ലഭിക്കുന്ന മൂല്യം 2ab2 എന്നായിരിക്കും ഈ നാല് കർവുകളിലൂടെയും ഉള്ള ഇന്റഗ്രൽകളുടെ ആകെത്തുക യായിരിക്കും നമുക്ക് ആവശ്യമുള്ള ലൈൻ ഇന്റഗ്രൽന്റെ മൂല്യം അതായത് ദീർഘ ചതുരത്തിലൂടെ ഉള്ള ലൈൻ ഇന്റഗ്രൽന്റെ മൂല്യം ലൈൻ ഇന്റഗ്രൽ എന്നതിന് സർക്കുലേഷൻ എന്ന മറ്റൊരു ടെർമിനോളജി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് C എന്നത് ഒരു ഓറിയന്റഡ് അല്ലെങ്കിൽ ലളിതമായ ക്ലോസ്ഡ് കർവ് ആകട്ടെ നമ്മൾ ഈ ലൈനെ ഇന്റഗ്രൽ എന്ന് വിളിക്കുന്നു ഇത് നമ്മൾ സാധാരണയായി ക്ലോസ്ഡ് ഇന്റഗ്രൽന് ആണ് ഉപയോഗിക്കുന്നത് അതിനാൽ അത്തരം ഒരു ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ ആണ് C ക്ക് ചുറ്റുമുള്ള F ന്റെ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ ഇതിന് തീർച്ചയായും ഫിസിക്കൽ മീനിങ് ഉണ്ട് നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പ്രോബ്ലം 3 Cക്ക് ചുറ്റുമുള്ള F ന്റെ സർക്കുലേഷൻ കണ്ടെത്തുക എന്നതാണ് ഇവിടെ ഇത് F നൽകുകയും C എന്നത് 00 മുതൽ 11 വരെയുള്ള yx2 കർവ് ആണ് പിന്നെ മറ്റൊരു കർവ് y2x 11 മുതൽ 00 വരെ അതിനാൽ ഈ 2 പാരബോളകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ക്ലോസ്ഡ് കർവ് ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ വെക്റ്റർ ഫീൽഡ് F നൽകിയിരിക്കുന്നു C യ്ക്ക് ചുറ്റുമുള്ള F ന്റെ സർക്കുലേഷൻ ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതായത് ഈ ക്ലോസ്ഡ് കർവിലുള്ള F ന്റെ ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കുക എന്നാണ് ആണ് അർത്ഥമാക്കുന്നത് അടച്ച വളവിലുള്ള സി നമ്മൾക്ക് ഇവിടെ yx2 y2x എന്നീ പരാബോളകൾ ഉണ്ട് അതിനാൽ ഇത് 0 0 മുതൽ 1 1 വരെ വ്യത്യാസപ്പെടുന്നു തുടർന്ന് 11 മുതൽ 00 വരെ മറ്റൊരു പരബോളയിലൂടെ 0 0 എന്നതിലേക്ക് മടങ്ങുന്നു നമ്മൾ ഈ F⋅dr കണക്കാക്കേണ്ടതുണ്ട് F ഇവിടെ നൽകിയിരിക്കുന്നു അതിനാൽ dr നമ്മൾ ഈ dx dy ഫോമിൽ എഴുതാം അതിനാൽ ഈ F⋅dr നമുക്ക് ഈ Component രൂപത്തിൽ 2xy2dx എന്നിങ്ങനെ ആകാം അതിനാൽ ഈ ലൈൻ ഇന്റഗ്രൽ നമുക്ക് 2 ലൈൻ ഇന്റഗ്രലുകളിലേക്ക് ബ്രേക്ക് ചെയ്യാം ഒന്ന് C1 എന്ന പാതയിലൂടെ C1F⋅dr മറ്റൊന്ന് C2 എന്ന പാതയിലൂടെ C2F⋅drഎന്നിങ്ങനെ ആണ് അതിനാൽ ഈ സന്ദർഭത്തിലും നിങ്ങൾ പാരാമട്രിക് സമവാക്യം എഴുതേണ്ടതില്ല കാരണം അവിടെ 2 വ്യത്യസ്ത കർവുകൾ ഉണ്ട് 2 വ്യത്യസ്ത പരാബോളകൾ ഒന്നുകിൽ നിങ്ങൾ രണ്ടിനെയും വ്യത്യസ്ത പാരാമട്രിക് കർവുകളിലേക്ക് പരിവർത്തനം ചെയ്യണം ശേഷം ഒരോ ഇന്റെഗ്രേലും വിലയിരുത്താം അല്ലെങ്കിൽ yx2 y2x എന്നീ റിലേഷൻകൾ നൽകിയിട്ടുള്ളതിനാൽ പാരാമട്രിക് കർവുകളിലേക്ക് പരിവർത്തനം ചെയ്യാതെ തന്നെ ഇന്റഗ്രൽ കണക്കുകൂട്ടാനും കഴിയും അതിനാൽ F⋅dr ഇവിടെ നൽകിയിരിക്കുന്നു തുടർന്ന് OAB ൽ yx2 എന്ന C1 കർവിലൂടെ നമ്മൾ പോകും dy dx എന്നിവ തമ്മിലുള്ള ബന്ധം കണക്കാക്കാൻ നമുക്ക് ഈ ബന്ധം ഉപയോഗിക്കാം yx2 എന്നതിൽ നിന്ന് 2xdxdy എന്ന് എഴുതാം അതിനാൽ ഇവിടെ ദൃശ്യമാകുന്ന 2 ഇന്റഗ്രലുകളിൽ ഒന്നിൽ dy നമ്മൾ 2 x dx ആയി മാറ്റുകയുംyx2 ആയി ഉപയോഗിക്കുകയും ചെയ്യും അതിനാൽ എല്ലാം ഒരേ വേരിയബിളായി പരിവർത്തനം ചെയ്യും അതിനാൽ ഇവിടെ dx നമ്മൾ 2xdx ഉപയോഗിക്കുകയും പിന്നീട് x സ്വാഭാവികമായും 0 മുതൽ 1 വരെ ഈ സാഹചര്യത്തിൽ പോകുകയും ചെയ്യും തീർച്ചയായും 0 മുതൽ 1 വരെ മറ്റൊന്ന് ഇവിടെ നമുക്ക് 2xy2 ഉണ്ട് y2x4 കാരണം ഇവിടെ അത് 2xx4 ആവുന്നുണ്ട് രണ്ടാമത്തെ പദം നമുക്ക് 3y 4x ഉണ്ട് തുടർന്ന് dy 2xdx എന്ന് എഴുതുന്നു അതിനാൽ വീണ്ടും ലളിതമായ 1 ഡൈമൻഷണൽ ഇന്റഗ്രൽ നമുക്ക് വിലയിരുത്താം മൂല്യം 130 ആയി കണക്കാക്കാം BDO യിലൂടെ നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ പാത സ്വീകരിക്കുകയാണെങ്കിൽ പ്രാരംഭ പോയിന്റിലേക്ക് മടങ്ങാൻ അത് y2x ആണ് ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് dx 2ydy ഉണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ dx 2ydy and xy2 മാറ്റിസ്ഥാപിക്കുന്നത് എളുപ്പമാണ് അതിനാൽ നമ്മൾ ഇപ്പോൾ അങ്ങനെ ചെയ്യും എല്ലാം y ആയി പരിവർത്തനം ചെയ്യപ്പെടും y യുടെ മൂല്യങ്ങൾ അല്ലെങ്കിൽ റെയിഞ്ച് 0 മുതൽ 1 വരെ ആയിരിക്കും നമ്മൾ y ൽ നിന്ന് വരുന്നത് 1 മുതൽ 0 വരെ ആയതിനാലാണ് മൈനസ് ചിഹ്നം കാണുന്നത് അതിനാൽ അത് ഇവിടെ എഴുതിയിരിക്കുന്നു ഒരു മൈനസ് ചിഹ്നത്തോടെ അതിനാൽ ഇത് മൂല്യം വരും 53 എന്ന് നമുക്ക് വിലയിരുത്താം അതിനാൽ അവസാനമായി രണ്ടും കൂടി ചേർത്താൽ നമുക്ക് ക്ലോസ്ഡ് ലൈൻ ഇന്റെഗ്രേലിന്റെ മൂല്യം 4930 എന്ന് ലഭിക്കുന്നു ശരി ലൈൻ ഇന്റെഗ്രൽ F⋅dr നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന മറ്റൊരു പ്രോബ്ലം ആണിത് അവിടെ നൽകുകയും കർവ് x2y29 എന്ന സർക്കിൾ ആയി നൽകുകയും ചെയ്യുന്നു അതിനാൽ സർക്കിളിനായി നമുക്ക് പാരാമട്രിക് സമവാക്യം എഴുതാൻ കഴിയും ഇവിടെ x y എന്ന ബന്ധം കംപോണന്റ് ഫോമിൽ എഴുതുന്നത് കൂടുതൽ സങ്കീർണമാക്കും ഈ ലൈൻ ഇന്റഗ്രൽ പാരാമട്രിക് സമവാക്യം എഴുതി ചെയ്യുന്നതാണ് നല്ലത് അതിനാൽ x സർക്കിളിനുള്ള പാരാമട്രിക് സമവാക്യം x3cos t y3sin t എന്നിവയാണ് ഇവിടെ t എന്നത് 0 മുതൽ 2 പൈ 2π വരെ വ്യത്യാസപ്പെടുന്നുവെന്ന് നമുക്കറിയാം അതിനാൽ നമ്മൾക്ക് കർവ്ന്റെ പാരാമീറ്റർ സമവാക്യം ഉണ്ട് തുടർന്ന് F⋅dr എന്നത് Frtdrdtdt ആയി വിലയിരുത്താനാകുമെന്ന് നമുക്കറിയാം അതിനാൽ നമ്മൾ ഇപ്പോൾ ഈ Frtdrdtdt പദം കണക്കാക്കേണ്ടതുണ്ട് അതിനാൽ ഇവിടെ Fyi 2xj ആയിരുന്നു അതിനാൽ y3sin t x3cos t എന്നിവ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിലൂടെ F3sinti 6cosj എന്നു ലഭിക്കുന്നു എന്നിട്ട് നമുക്ക് drdt കണക്കാക്കാം നമുക്കിവിടെ rtxiyj3cos t i3sin t j എന്നു ലഭിക്കും അതിനാൽ ഇവിടെ നിന്ന് നമുക്ക് ഡെറിവേറ്റീവ് ലഭിക്കും drdt 3sin t i3cos t j വരും തുടർന്ന് ഡോട്ട് പ്രോഡക്റ്റ് കാണുന്നു Frtdrdtdt 9sin2 t 18cos2 t എന്നു ലഭിക്കും അതിനാൽ ഈ ഇന്റഗ്രൽ നമുക്ക് ഈ എന്നിങ്ങനെ വിലയിരുത്താം അത് എന്നും അതിനെ നമുക്ക് എന്നും ആയി എഴുതാം

ഈ പ്രഭാഷണം തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ച റഫറൻസുകളാണ് ഇവ നമ്മൾ കൺക്ലൂട് ചെയ്യുന്നു നമ്മൾ എന്താണ് പഠിച്ചത് തന്നിരിക്കുന്ന കർവ് C യിൽ F ന്റെ ലൈൻ ഇന്റഗ്രൽ നമ്മൾ പഠിച്ചു അത് F1xyzdxF2xyzdyF3xyzdz എന്നിങ്ങനെ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താം ഇത് എങ്ങനെ ചെയ്യാമെന്നതിനുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു രണ്ടാമത്തെ മൂല്യനിർണ്ണയം നമുക്ക് എളുപ്പത്തിൽ അറിയാവുന്ന പാരാമീറ്റർ സമവാക്യം അറിയാമെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ കഴിയും അതിനാൽ ഈFrtdrdt ന്റെ ഡോട്ട് പ്രോഡക്റ്റ് എഴുതുന്നു പിന്നെ നമുക്ക് t യിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം അതിനാൽ ലൈൻ ഇന്റഗ്രൽ വിലയിരുത്തുന്നതിനുള്ള മറ്റൊരു മാർഗമാണിത് ഇത്രയും ശ്രദ്ധിച്ചതിന് ഞങ്ങൾക്ക് നന്ദി